തുടർ ചാർജ് വിന്യാസത്തിന്റെ എനർജി III ഇലക്ട്രിക്ക് ഫീൽഡ് ഉപയോഗിച്ച് എനർജി ഡെൻസിറ്റി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ചാർജ് വിന്യാസം കാരണമുണ്ടാകുന്ന എനർജിയെക്കുറിച്ചായിരുന്നു ഇതിനു മുൻപുള്ള രണ്ടു ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതനുസരിച്ച് ഇത്തരം ചാർജ് വിന്യാസം കൊണ്ടുള്ള എനർജി അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അനുസരിച്ച് ഇതിനെകുറിച്ച് വിശദമായി പഠിക്കാം മാത്രമല്ല എനർജി ഇലക്ട്രിക്ക് ഫീൽഡ് അഥവാ വൈദ്യുത മണ്ഡലം ഉപയോഗിച്ച് കൂടി കാണുകയെന്നതും ഇവിടെ വളരെ പ്രധാനമാണ് അപ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡ് എന്ന ആശയം ഇവിടെ പ്രയോഗിക്കാം ഒരു നിശ്ചിത ചാർജ് വിന്യാസത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചാർജ് വിന്യാസം അതിനു ചുറ്റും ഒരു വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുന്നുണ്ട് ഒരു നിശ്ചിത ബൌണ്ടറി കണ്ടീഷൻ നിൽ ചാർജ് വിന്യാസവും ഈ വൈദ്യുത മണ്ഡലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ചാർജ് വിന്യാസം ബൌണ്ടറി കണ്ടീഷൻ ഇവ അറിയാമെങ്കിൽ ഇലക്ട്രിക്ക് ഫീൽഡ് കണ്ടു പിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ തിരിച്ചും അതായത് ഇലക്ട്രിക്ക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡൈവേർജെൻസ് എടുത്താൽ ചാർജ് വിന്യാസം ലഭിക്കും അതായത് അങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അതിനു ചുറ്റും ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക്ക് ഫീൽഡിൽ എനർജി ശേഖരിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി സങ്കല്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം ഇതിനെ ആശയപരമായി വിവിധ രീതിയിൽ സങ്കല്പിക്കാം ഇതിനെ കുറിച്ച് വിശദമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസിലാകുന്നത് എനർജി ഇലക്ട്രിക്ക് ഫീൽഡിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ സങ്കൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്നും നമുക്ക് യൂണിറ്റ് വോളിയ ത്തിലുള്ള എനർജി അതായത് എനർജി ഡെൻസിറ്റി കാണാൻ സാധിക്കും വൈദ്യുത കാന്തിക തരംഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക മണ്ഡലത്തെകുറിച്ചോ പറയുമ്പോൾ എനർജി ഡെൻസിറ്റി എന്നത് ആശയപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് വൈദ്യുത മണ്ഡലം വ്യാപിക്കുന്നതിനോടൊപ്പം എനർജിയുടെ വ്യാപനവും ഉണ്ടാകുന്നു അതുകൊണ്ടുതന്നെ ഇലക്ട്രിക് ഫീൽഡ് എനർജി വഹിക്കുന്നതായി സങ്കൽപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇലക്ട്രിക്ക് ഫീൽഡ് എന്നതിന് നമ്മൾ E എന്ന സിംബൽ എടുക്കുന്നതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ തത്കാലം എനർജിയെ E എന്ന് പ്രതിനിധാനം ചെയ്യുന്നതിന് പകരം വർക്ക് എന്ന അർത്ഥത്തിൽ W എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കാം അപ്പോൾ എനർജി അഥവാ വർക്ക് ഈ സമവാക്യത്തിൽ ഗണിതത്തിന്റെ സഹായത്തോടെ നമുക്ക് ചെറിയ ചില മാറ്റങ്ങൾ വരുത്താം അതായത് ഞാനിവിടെ എന്നതിന് എന്ന് എഴുതുകയാണ് ഇത് പോയ്സൺസ് ഇക്വേഷൻ Poisson's equation എന്നറിയപ്പെടുന്നു ഇതുകൂടി W വിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ എന്നാൽ എന്നത് ഡിഫറെൻഷ്യൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് കാരണം ആണല്ലോ അതാണ് നമ്മൾ യിൽ നിന്നും | V| 2 കുറച്ചിരിക്കുന്നത് ഈ സബ്സ്റ്റിട്യൂഷൻ ശരിയാണെന്ന് നിങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നത് ഡിഫറെൻഷ്യൽ ഓപ്പറേറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തു നോക്കുമല്ലോ ഇത് ഞാൻ ഇതിന്റെ 3 കാംപോനന്റിനും പ്രയോഗിക്കയാണ് W കാണാനുള്ള ഇക്വേഷനിൽ V 2V ന്റെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ ഇതിൽ ആദ്യത്തെ പദം ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് മാറ്റി എഴുതാം ഡൈവേർജൻസ് തിയറം എന്താണ് പറയുന്നതെന്ന് നോക്കൂ ഇതനുസരിച്ച് ഒരു വെക്റ്റർ ഫീൽഡ് A യെ ഒരു നിശ്ചിത വോളിയത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും ഇതേ വെക്ടറിന്റെ ഈ വോളിയം ഉൾകൊള്ളുന്ന ഉപരിതലത്തിൽ ആകെയുള്ള ഇന്റഗ്രൽ അതായത് വെക്ടറിന്റെ സർഫേസ് ഇന്റഗ്രൽ എടുക്കുന്നതും തുല്യമായിരിക്കും അതായത് അപ്പോൾ ഡൈവേർജൻസ് തിയറം ഉപയോഗിക്കുമ്പോൾ വർക്ക് കാരണം V E ഇലക്ട്രിക്ക് ഫീൽഡ് ആണ് ഞാൻ ഇവിടെ അത് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് ഒരു വിശാലമായ മേഖല എടുക്കയാണെങ്കിൽ ഒറിജിനിൽ നിന്നും വളരെ ദൂരെ എടുത്താൽ നമുക്കറിയാം വോളിയം ഉൾകൊള്ളുന്ന ഉപരിതലം ഇൻഫിനിറ്റ് ദൂരത്തിലായിരിക്കുമെന്ന് പൊട്ടൻഷ്യൽ V എപ്പോഴും 1r ന് ആനുപാതികമായിരിക്കും അപ്പോൾ V 1 r 2 അതുപോലെ V V 1 r 3 ds r2 അതായത് V V ds 1 r അപ്പോൾ r ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ പദം ഇല്ലാതാകുന്നു അതായത് സീറോ ആകുന്നു അപ്പോൾ എനർജി അഥവാ വർക്ക് ഇവിടെ 12𝟄0 E2 എന്നത് മുഴുവൻ വോളിയത്തിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്താൽ ആകെ എനർജി ലഭിക്കും അതായത് അതിനർത്ഥം 12𝟄0 E2 യഥാർത്ഥത്തിൽ എനർജി ഡെൻസിറ്റി ആണെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസിലാക്കാം ഇവിടെ ഒരു ചാർജ് വിന്യാസം ഉണ്ടെന്ന് അപ്പോൾ ഈ ചാർജ് വിന്യാസമുള്ള മേഖലയിലാകമാനം ഇതുകാരണമുണ്ടാകുന്ന എനർജി ഡെൻസിറ്റി 12𝟄0 E2 ആയിരിക്കും എനർജി ഡെൻസിറ്റി ഇത്രയുമാണെങ്കിൽ ആകെ എനർജി എന്നത് ഈ ചാർജ് ഡെൻസിറ്റിയെ മുഴുവൻ വോളിയത്തിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ എനർജി ഇലക്ട്രിക്ക് ഫീൽഡിൽ നിലനിൽക്കുന്നതായോ അല്ലെങ്കിൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഈ എനർജി വഹിക്കുന്നതായോ സങ്കല്പിക്കാം ഇതിനോട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നിങ്ങൾ 12th ഗ്രേഡിൽ പഠിച്ച ഉദാഹരണം തന്നെ നോക്കാം ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസ് C ആയുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ ഈ കപ്പാസിറ്ററിന് V0 എന്ന വോൾട്ടേജ് നൽകുന്നതായി സങ്കല്പിച്ചാൽ അതിനു വേണ്ടിവരുന്ന എനർജി എത്രയായിരിക്കും നമ്മൾ കപ്പാസിറ്ററിനെ സീറോ പൊട്ടൻഷ്യലിൽ നിന്നും V0 യിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ ഏതെങ്കിലും സ്റ്റേജിലുള്ള പൊട്ടൻഷ്യൽ V എന്നിരിക്കട്ടെ ഈ സന്ദർഭത്തിൽ ΔQCΔV ചാർജ് വർദ്ധനവുണ്ടാക്കാൻ ചെയ്യേണ്ടിവരുന്ന വർക്ക് അതായത് സീറോ പൊട്ടൻഷ്യലിൽ നിന്നും V0 പൊട്ടൻഷ്യലായി ഉയർത്താൻ ചെയ്യേണ്ടിവരുന്ന വർക്ക് ഇത്രയുമാണ് ഇതിന്റെ ആകെ എനർജി എന്നാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതനുസരിച്ച് ചാർജ് വിന്യാസം കൊണ്ടുള്ള എനർജി ഡെൻസിറ്റി 12𝟄0 E2 ആണല്ലോ സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററുകളിൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഉള്ളത് പ്ലേറ്റുകളുടെ ഇടയിൽ മാത്രമാണ് മറ്റിടങ്ങളിൽ ഫീൽഡ് സീറോ ആണ് സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററുകളിൽ ഇലക്ട്രിക്ക് ഫീൽഡ് d എന്നത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം ആണ് അപ്പോൾ എനർജി ഡെൻസിറ്റി ആകെ എനർജി കിട്ടാൻ എനർജി ഡെൻസിറ്റിയെ വോളിയം കൊണ്ട് ഗുണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എനർജി നേരത്തെ കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് ഇവ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അടുത്തതായി നമ്മൾ എടുക്കുന്ന ഉദാഹരണം R റേഡിയസും Q ചാർജും ഉള്ള ഒരു ഷെൽ ആണ് ഇതിന്റെ എനർജി എന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ρ എന്നത് ഷെല്ലിന്റെ ചാർജ് ഡെൻസിറ്റി ആണ് അതായത് ρ എന്നത് സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 ✕ δ ഇവിടെ δ ന് 1 r ന്റെ ഡയമെൻഷൻ ആണ് ഉള്ളത് 𝜎 യ്ക്ക് 1r2 ന്റെ ഡയമെൻഷനും അപ്പോൾ 𝜎 ✕ δ ന് 1 വോളിയം അഥവാ 1r3 ന്റെ ഡയമെൻഷൻ ആയിരിക്കും അപ്പോൾ വർക്ക് എന്നാൽ 𝜎 4 𝜋 r2 Q ആണല്ലോ അതുപോലെ അപ്പോൾ അതായത് 12th ഗ്രേഡിൽ നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് വളരെ പരിചിതമായ റിസൾട്ട് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതാണ് Q ചാർജും R റേഡിയസുമുള്ള ഒരു ഷെല്ലിന്റെ എനർജി കാണാനുള്ള ഫോർമുല ഇത് തന്നെ നമുക്ക് ഇലക്ട്രിക്ക് ഫീൽഡും എനർജി ഡെൻസിറ്റി എന്ന ആശയവും ഉപയോഗിച്ച് കണ്ടുപിടിക്കാം നമുക്കറിയാം ചാർജ് ചെയ്ത ഒരു ഷെല്ലിന്റെ ബാഹ്യ വൈദ്യുത മണ്ഡലം അഥവാ പുറത്തുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ആണെന്നും ഷെല്ലിന്റെ ഉള്ളിലുള്ള ഫീൽഡ് സീറോ ആണെന്നും എനർജി അഥവാ വർക്ക് കാണാനുള്ള ഫോർമുല എന്നാണല്ലോ ഇതിൽ E യുടെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ ഇന്റഗ്രേഷൻ ലിമിറ്റ് R മുതൽ ∞ വരെയാണ് എടുത്തിട്ടുള്ളത് കാരണം ഷെല്ലിനുള്ളിൽ ഫീൽഡ് സീറോ ആണ് ഇക്വേഷനിൽ 4 𝜋 ഡിനോമിനേറ്റർ ലെ 16 𝜋2 മായി ക്യാൻസൽ ചെയ്ത് 4 𝜋 ലഭിക്കുന്നു 𝜖0 ഡിനോമിനേറ്ററിലെ 𝜖0 2 മായി ക്യാൻസൽ ചെയ്യുന്നു r 2 ഡിനോമിനേറ്ററിലെ r 4 മായി ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ നേരത്തെ കിട്ടിയ അതെ റിസൾട്ട് കിട്ടിയിരിക്കുന്നു അവസാനമായി ഞാൻ സമമായി ചാർജ് ചെയ്യപ്പെട്ട ഒരു ഗോളം കൂടി ഉദാഹരണമായി എടുക്കുകയാണ് ഇവിടെ R റേഡിയസുള്ള ഈ ഗോളത്തിലാകമാനം സമമായി ഒരേ ചാർജ് ഡെൻസിറ്റി ⍴ ഉണ്ടായിരിക്കും നേരത്തെ നമ്മൾ ഇതേ പ്രോബ്ലം 1 2 V എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തിരുന്നതാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മൂല്യം ഇലക്ട്രിക്ക് ഫീൽഡ് E യുടെ സബ്സ്റ്റിട്യൂഷൻ എന്ന ഇക്വേഷനിൽ ചെയ്താൽ ഇവിടെ രണ്ടാമത്തെ പദം നേരത്തെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് അതിന്റെ ഫലം എന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഒന്നാമത്തെ ഇന്റഗ്രൽ മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിലെ 𝜖0 ഡിനോമിനേറ്ററിലെ 𝜖0 2 മായി ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ഇത് W കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ ഈ കിട്ടിയിരിക്കുന്നത് നേരത്തെ നമുക്ക് കിട്ടിയ അതെ റിസൾട്ട് ആണ് അപ്പോൾ ഞാനിവിടെ വിശദമാക്കാൻ ഉദ്ദേശിച്ചത് ഒരു ചാർജ് വിന്യാസം കൊണ്ടുള്ള എനർജി ചാർജ് വിന്യാസം കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നതായി സങ്കൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ എനർജി ഡെൻസിറ്റി 1 2 ϵ0 E2 ആയിരിക്കും ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത് ഈ ഒരു രീതിയിൽ എനർജി കാണുമ്പോൾ ലഭിക്കുന്ന റിസൾട്ട് നേരിട്ടുള്ള ഫോർമുല വഴി ലഭിച്ച റിസൾട്ട് തന്നെ ആയിരിക്കുമെന്നാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിനെ കുറിച്ചുകൂടി വിശദമാക്കിയതിനു ശേഷം ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ ഒരു ഷെല്ലിലുള്ള ചാർജ് കാരണമുള്ള എനർജി കണ്ടു പിടിച്ചപ്പോൾ അവിടെ എഴുതിയ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ വർക്ക് അഥവാ എനർജി കാണാനായി എന്നാണ് എടുത്തത് ഇതിൽ രണ്ടാമത്തെ പദം എന്ന് കിട്ടി ഒന്നാമത്തെ പദം എന്നും എടുത്തു പക്ഷെ നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത് r R മുതൽ r ∞ വരെയാണ് എന്ന കാര്യം നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയം ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സർഫേസിൽ സീറോ അല്ലാത്ത ഒരു പദം ഉണ്ടാകുമല്ലോ എന്നായിരിക്കും കാരണം ഇവിടെ ഡൈവെർജെൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത് സീറോ ആയിരിക്കില്ല എന്നാൽ വളരെ സ്പഷ്ടമല്ലെങ്കിലും നിങ്ങൾക്ക് മനസിലാക്കാം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് എന്നാണ് ഇതിൽ രണ്ടാമത്തെ പദം സീറോ ആയിരിക്കും ഒന്നാമത്തെ പദം കൂടി സീറോ ആയിരിക്കുമെന്ന് ഇവിടെ തെളിയിക്കാം ഇവിടെ ഷെല്ലിന്റെ ഉപരിതലം അല്പം ഉള്ളിലേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ മുഴുവൻ ചാർജും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്ന കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്റഗ്രേഷൻ നടത്തുന്നത് ഇവിടെ ഉള്ളിലായി ബ്ലൂ നിറത്തിൽ വരച്ചിരിക്കുന്ന ഭാഗം മുതൽ ഇൻഫിനിറ്റി വരെയായിരിക്കണം അപ്പോൾ ഈ ബ്ലൂ പ്രതലത്തിനും ഇൻഫിനിറ്റിക്കും ഇടയിലായി മുഴുവൻ ചാർജ് വിന്യാസവും ഉൾപ്പെടുന്നു എന്നാൽ നമുക്കറിയാം ഷെല്ലിന്റെ ഉപരിതലത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന കാര്യം അതുകൊണ്ടു ഈ ഇന്റഗ്രേഷനിൽ V പുറത്തേക്കെടുക്കാം അപ്പോൾ പക്ഷെ നിങ്ങൾക്കറിയാം ഈ ബ്ലൂ ഷെൽ ചാർജ് ഉൾക്കൊള്ളുന്നില്ല എന്ന് അതുകൊണ്ടുതന്നെ ഗോസ്സ് തിയറിGauss's theory അനുസരിച്ച് അതുകൊണ്ടുതന്നെ നേരത്തെ കാണിച്ച ഇക്വേഷനിലെ ആദ്യ പദവും സീറോ ആകുന്നു നിങ്ങൾ ഇത് ഒന്നുകൂടെ വിശദമായി ചിന്തിച്ച് ചെയ്തുനോക്കികൊള്ളൂ ഇത്രയും നേരം നിങ്ങളുടെ മനസിൽ ഉണ്ടായിരുന്ന സംശയം ഇപ്പോൾ ഈ വിശദീകരണത്തിലൂടെ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്